ഹലോ സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന്റെ ഈ വീഡിയോ ലെക്ച്ചറിലേക്ക് സ്വാഗതം മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഹാർഡ്വെയർ ട്രോജനെയും അത് ഡിറ്റക്ട ചെയ്യാനുള്ള രണ്ടു ടെക്നിക്സും കണ്ടു കഴിഞ്ഞു ഫാൻസി എന്ന ആദ്യത്തേത് ഫാബ്രിക്കേറ്റഡ് ഐസിയിലെ ഐപി കോറിൽ ഉള്ള ട്രോജെനേയും രണ്ടാമത്തേത് പവർ ഉപഭോഗം പോലുള്ള സൈഡ് ചാന്നൽസ് ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ട്രോജെനേയുംകണ്ടെത്താൻ ഉള്ളതായിരുന്നു ഇതെല്ലം ഒരു പരിധി വരെ വിജയമാണെങ്കിലും ട്രോജൻ ഡെവലപ്പേഴ്സിന് ഇവയെയെല്ലാം ബൈപാസ് ചെയ്യുനതരത്തിലുള്ള ട്രോജനെ ഡെവലപ്പ് ചെയ്യാൻ സാദിക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹഹരിക്കാനുള്ള മറ്റൊരു വഴി എന്നത്ഹാർഡ്വെയർ ട്രോജനെ മുഴുവനായി വിലക്കുക എന്നതാണ് നമുക്കവയുടെ സാനിധ്യം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽഹാർഡ്വെയർ ട്രോജനെ പ്രേവേശിപ്പിക്കാൻ സാധികാത്ത തരത്തിൽ ആയിരിക്കണം സര്ക്യൂട് ഡിസൈൻ ചെയ്യാൻ സൈലെൻസിങ് ഹാർഡ്വെയർ ബക്കഡോർസ് എന്ന ഒരു പേപ്പറാണ് നമ്മൾ ഈ ലെക്ചർറിൽ കാണാൻ പോകുന്നത് ഇത് 2011 ൽ ഓൿലൻഡിൽ പ്രസന്റ് ചെയ്യപ്പെട്ടതാണ് ഈ വീഡിയോ ലെക്ചർറിൽ ഇന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്ലൈഡ്സ് എല്ലാം ഈ പേപ്പറിനെക്കുറിച്ചുള്ള ആദം വാക്സ്മാന്റെ 2011 ലെ ഓൿലൻഡ് ടോക്ക് ഇൽനിന് ഉള്ളതാണ് ഹാർഡ്വെയർ ട്രോജന് രണ്ട് കോംപോണേന്റ് ഉണ്ടെന്ന തത്വത്തിൽമേൽ കുറെ പേപ്പറുകൾ ഉണ്ട് ആദ്യത്തേത് ട്രിഗ്ഗറും രണ്ടാമത്തേത് നമ്മൾ മുൻപത്തെ ലെക്ചർറിൽ കണ്ട പേലോഡും ആണ് എങ്ങനെയെങ്കിലും നമുക്കൊരു ഹാർഡ്വെയർ മോഡൽ ഡിസൈൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ട്രിഗർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായാൽ ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടായാൽ പോലും പേലോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടില്ല അതുകൊണ്ടുതന്നെ സെൻസിറ്റീവ് വിവരം അല്ലെങ്കിൽ മലിഷ്യസ് ആക്ടിവിറ്റി ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് ഈ പേപ്പർ സംസാരിക്കുന്ന നിർണായകമായ ഘടകം എന്നത് എങ്ങനെ ഹാർഡ്വെയർ ട്രോജൻ ട്രിഗർ ചെയ്യുന്നു എന്നാണ് പ്രധാനമായ കാര്യം പേലോഡ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാനായി എങ്ങനെ ട്രിഗറിനെ ഒളിപ്പിക്കാം എന്നാണ് ഹാർഡ്വെയർ ട്രോജൻ പ്രത്യക്ഷ പെടുന്ന എല്ലാ വ്യത്യസ്താമായ രീതികളും വിവരിച്ഛ് ഈ രീതിയിലുള്ള ട്രിഗർ വച്ച് ഒരു അറ്റാക്കർക്കു ട്രോജൻ ഡിസൈൻ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടേറിയ പരിപാടിയാക്കുക എന്നാണതിവിടെത്തെ ഐഡിയ ഇത് മനസിലാക്കാനായി നമുക്ക് ഹാർഡ്വെയർ മൊഡ്യൂലിന്റെ ഒരു ഹൈ ലെവൽ പിക്ചർ എടുക്കാം എല്ലാ ഹാർഡ്വെയർ മൊഡ്യൂലിനും കുറച്ചു ഇന്പുട്സ് ഉണ്ടാകും മാത്രേമല്ല അത് ഔട്ട്പുട്ട് തരുകയും ചെയ്യും റീസെറ്റ് ക്ലോക്ക് എന്നിങ്ങനെയുള്ള ഇന്പുട്കളെ ഗ്ലോബൽ ഇന്പുട് എന്ന് തരാം തിരിച്ചിട്ടുണ്ട് കണ്ട്രോൾ ഇന്പുട് ആണ് സ്റ്റെറ്റുമെഷീനെ മോഡിഫൈ ചെയ്യുന്നത് മെമ്മോറിയിൽ നിന്ന് ഡാറ്റ എടുക്കാനൊക്കെ ഡാറ്റ ഇന്പുട്സ് അനുപയോഗിക്കുന്നത് എല്ലാ ഇൻപുട്ടുകളും ഔട്പുട്ടിനെ ബാധിക്കും ട്രിഗർ ആക്ടിവേറ്റഡ് ചെയ്യാനല്ല വഴി ഗ്ലോബൽ കണ്ട്രോൾ ഡാറ്റ ടെസ്റ്റ് എന്നീ ഇൻപുട്ടുകളാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ സിഗ്നൽസ്ഡാറ്റ സിഗ്നൽ കണ്ട്രോൾ സ്സിഗ്നൽസ് എന്നിവയിലൂടെ വരാൻ കഴിവുള്ള ട്രിഗേർസാണ് ഓരോ സിഗ്നൽസിനും വ്യത്യസ്താമായ ട്രിഗേര്സ് ആണ് അതായതു ടിക്കിങ് ടൈം ബോംബിന് ക്ലോക്ക് ഉപേയാഗിക്കുന്നതാണ് ഗ്ലോബൽ സിഗ്നൽസ് സിംഗിൾ ഷോട്ട് ആയോ അല്ലെങ്കിൽ സീക്വൻസ് ആയി വരുന്ന ചീറ്റ് കോഡ് ആണ് ഡാറ്റ സിഗ്നൽസ് അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ ട്രിഗറുകൾ എങ്ങനെയിരിക്കുമെന്നും ഈ ട്രിഗറുകളെയൊക്കെ തടയുന്ന താരത്തിലൊരു ഹാർഡ്വെയർ മോഡൽ എങ്ങിനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങിനെ ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടാക്കുന്നത് അറ്റാക്കർക്കു ബുദ്ധിമുട്ടേറിയ സംഗതി ആക്കി മാറ്റാമെന്നുമാണ് നമുക്കപ്പോൾ ട്രിഗർ ടിക്കിങ് ടൈം ബോംബിൽ നിന്ന് തുടങ്ങാം ഇത് നമ്മളുടെ ഹാർഡ്വെയർ ആയി പരിഗണിക്കുവാണെങ്കിൽ ഇത് അറ്റാക്കർ സ്പെസിഫൈ ചെയ്ത ഫിക്സ് ടൈം ന് വേണ്ടി കാത്തുനിന്ന് പെലോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു ട്രോജൻ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യുന്നത് കുറച്ചു ആഴ്ചകൾക്കോ കുറച്ചു മാസങ്ങൾക്കോ കുറച്ചു വര്ഷങ്ങൾക്കോ അല്ലെങ്കിൽ ആ വർഷത്തിലെ സ്പെസിഫിക് ആയ ഏതെങ്കിലും സമയത്തു ആയിരിക്കും ഇനി നമ്മൾ എങ്ങനെയാണു ടിക്കിങ് ടൈം ബോംബിന്റെ ട്രിഗർ ഡിസൈൻ ചെയ്യുന്നതെന്ന് വിശദമായി നോക്കാം അതിൻറെ ഡിസൈൻ ഇതുപോലിരിക്കും ഇതാണിതിന്റെ ഇന്പുട് ഇത് ഡാറ്റക്കോ മറ്റുകാര്യങ്ങൾക്കോ യൂസർ പറയുന്ന പോലെ ഉപയോഗിക്കാം ഇത് ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലോജിക്കിലൂടെ കടന്നുപോയി ഔട്പുട്ടിൽ എത്തുന്നു ഇവിടെ ഒരു കൌണ്ടർ ഉണ്ട്അതാണ് ഹാർഡ്വെയർ ട്രോജൻഅത് ഓരോ ക്ലോക്ക് പൾസിലും ഒന്ന് കൂടി ട്രിഗർഡ് വാല്യൂവുമായി താരതമ്യം ചെയ്യും ഉദാഹരണത്തിന്ഇപ്പോൾ അറ്റാക്കർ ട്രിഗർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞു ആക്ടിവേറ്റഡ് ആകാനാണെന്നു കരുതുക അപ്പോൾ കൌണ്ടർ കൂടി കൊണ്ടിരിക്കും ക്രമാനുസ്യതമായി കമ്പാരട്ടർ എത്രെ സമയം കടന്നുപോയി എന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കും സാദാരണയായി അതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും ശരിയായ അളവ് സമയം കഴിഞ്ഞാൽ കമ്പാരട്ടർ ഔട്ട്പുട്ട് 1 ആകും ഇതിനിടക്ക് മലീഷ്യസ് ലോജിക് പ്രവർത്തിക്കുന്നുണ്ട് അത് രഹസ്യ ഇൻപുട്ട് ഒരു മൾട്ടിപ്ളെക്സി റിലൂടെ ലീക്ക് ചെയ്യും സാദാരണ കേസിൽ കമ്പാരട്ടർ ഔട്ട്പുട്ട് 0 ആയതിനാൽ ഒറിജിനൽ ലോജിക് ആയിരിക്കും ഔട്പുട്ടിലേക്കു അയക്കുക മറുവശത്ത് ശരിയായ അളവ് സമയം കഴിഞ്ഞുപോയാൽ കമ്പാരട്ടർ ഔട്ട്പുട്ട് 1 ആവുനതുമൂലം മൾട്ടിപ്ളെക്സർ മലീഷ്യസ് ലോജിക് ഔട്ട്പുട്ട്ലേക്ക് സ്വിച്ച് ചെയ്യും അതായതു സ്പെസിഫൈ ചെയ്ത സമയം വന്നെത്തി യതിനാൽ മലീഷ്യസ് ലോജിക്കിനുസൃതമായ പേലോഡ് എക്സിക്യൂട്ട് ചെയ്ത് രഹസ്യ വിവരങ്ങൾ ഔട്ട്പുട്ട്ലേക്ക് ലീക്ക് ആകുകയും ചെയ്യും ടിക്കിങ് ടൈം ബോംബ് നിശബ്ദമാക്കാനായി എപോക്ക് ഡ്യൂറേഷൻ ആണ് പരിഗണിച്ചിരുന്നത് ഇത് എത്രെ വേണേൽ ആകാംഒരു ആഴ്ചകുറച്ചു ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം പോലുമാകാം ഇവിടെ നമ്മുടെ അനുമാനം ഈ എപോക്ക് ഡ്യൂറേഷനിൽ ഈ മുഴുവൻ ഡിസൈൻ നമ്മൾ നല്ല പോലെ ടെസ്റ്റ് ചെയ്ത് ഒരു ഹാർഡ്വെയർ ട്രോജനും ഈ കാലഘട്ടത്തിൽ ട്രിഗർ ചെയ്യപ്പെടില്ല എന്നുറപ്പിക്കും എന്നാണ് ഈ എപ്പോക്ക് പീരിയോഡിന് ശേഷം ഹാർഡ്വെയർ ട്രോജൻ ട്രിഗർ ചെയ്യപ്പെടുമോ എന്നറിയില്ല അതുകൊണ്ടു ഈ ടിക്കിങ് ടൈം ബോംബ് നിശബ്ദമാക്കാനായി ഓരോ എപ്പോക്ക് കഴിയുമ്പോഴും നമ്മൾ ഈ മുഴുവൻ സർക്യൂട്ട് റീസെറ്റ് ചെയ്യും ഇതുമൂലം ഹാർഡ്വെയർ ട്രോജൻറെ ടൈം കൌണ്ട് ചെയ്യുന്ന കൌണ്ടർ റീസെറ്റ് ആകും അതായത് കൌണ്ടറിനു അനുവദിച്ചിരിക്കുന്ന മാക്സിമം കൌണ്ട് എപ്പോക്ക് വരെയാണ് നമ്മൾ കൌണ്ടർ എപ്പോക്ക് ആകുമ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും 0 യിൽനിന്ന് തുടങ്ങും ഇപ്പോൾ നമ്മുടെ നിഗമനങ്ങൾക്കും ടെസ്റ്റ്കല്ക്കും മനുസരിച്ചു ഒരു എപ്പോക്ക് നു താഴെയായി ട്രിഗർ ചെയ്യപ്പെടാൻ കഴിയുന്നൊരു ഹാർഡ്വെയർ ട്രോജൻ ഇതിൽ ഇല്ല ഈ സർക്യൂട്ട് റീസെറ്റ് ചെയ്യുന്നതിലൂടെ ഏതൊരു ട്രോജനും ട്രിഗർ ചെയ്യുന്നത് തടയാനാകുo എന്നിരുന്നാലും ഒരു സർക്യൂട്ട് അതിൻറെ പ്രവർത്തനങ്ങൾക്കിടക്ക് റീസെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ തായ പ്രശ്നങ്ങളും ഉണ്ടാകും റീസെറ്റ് ചെയ്യുമ്പോൾ പൈപ്പ്ലൈൻ ഫ്ലഷ് ചെയ്യുകയുംസിസ്റ്റത്തിന്റെ കറന്റ് സ്റ്റേറ്റ് ഈ ഹാർഡ്വെയർ ഡിവൈസിനെ വീണ്ടും ON ചെയ്യുമ്പോൾ നിർത്തിയിടത്തുനിന്നു തുടങ്ങാനായി സേവ് ചെയ്യുകയും വേണം രജിസ്റ്റർബ്രാഞ്ച് ഹിസ്റ്ററി ടാർഗറ്റ് പോലുള്ള ഹാർഡ്വെയറിൽ ഉള്ള കംപോണ ന്റ്സും സേവ് ചെയ്യണം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രൊട്ടക്ഷൻ രീതികൾ മറികടക്കാൻ എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്നാണ് റീസെറ്റ് ചെയ്തിട്ടും എപോക്ക് നേക്കാൾ വലിയ ഒരു സമയം വരുമ്പോൾ അറ്റാക്കർക്കു ട്രോജൻ പേലോഡ് ട്രിഗർ ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നൊക്കെയാണ് അറ്റാക്കർ ചെയ്യേണ്ടത് ക്രമമായി കൌണ്ടർ വാല്യൂ ഒരു നോൺ വോളറ്റൈൽ ആയ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയാണ് ഇനി പവർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൌണ്ടർ സ്റ്റോർ ചെയ്ത വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ അറ്റാക്കർക്ക് കൌണ്ടറിനെ എപോക്കിനെക്കാൾ മുകളിൽ എത്തിക്കാൻ സാധിക്കും ഇവിടെ അറ്റാക്കർക്കു ആവശ്യം കുറച്ചു നോൺ വോളറ്റൈൽ മെമ്മറിയോ ഫ്ലാഷ് മെമ്മറിയോ ഐസിയിൽ ഉണ്ടാക്കുകയാണ് അതിനായി ഹാർഡ്വെയർ ഡിസൈനിൽ കുറച്ചു സെല്ലുകൾ ചേർക്കും എന്നിട്ട് ഈ മലീഷ്യസ് ഫ്ലാഷ് കൌണ്ടർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും ഇത് തടയാനായി ഒരു ക്ലോക്ക് സോഴ്സ് പവർ സോഴ്സ്മായി കണക്ട് ചെയ്തു കൊണ്ട് സിസ്റ്റം തുടർച്ചയായി ഓൺഓഫ് ആക്കിയാൽ മതി ഇങ്ങനെ വലിയ തോതിൽ സിസ്റ്റം തുടർച്ചയായി ഓൺ ഓഫ് ആയാൽ ഫ്ലാഷ് മെമ്മറി നശിച്ചുപോകും ഇങ്ങനെ അറ്റാക്കർ ഇന്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഫ്ലാഷ് വച്ചാലും നമുക്കതു നശിപ്പിക്കാൻ സാധിക്കും ടിക്കിങ് ടൈം ബോംബിനു പ്രൊട്ടക്ഷൻ മറികടക്കാനുള്ള വേറൊരു വഴി എന്നത് ഈ ഇന്റർമീഡിയറ്റ് റിസൾട്ട് RAM ൽ രേഖപ്പെടുത്തുകയാണ് റീസെറ്റിനു ശേഷം RAM വാല്യൂസ് നശിക്കില്ല എന്നാണ് അനുമാനിക്കുന്നത് എന്നിരുന്നാലും അൺമസ്കബിൾ ഇന്റെര്പ്റ് മൂലം ഇങ്ങനെയൊരു മെക്കാനിസം ഡിസൈൻ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ് അൺമസ്കബിൾ ഇന്റെര്പ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല ഡിവൈസ് ഓഫ് ചെയ്യുമ്പോഴോ പവർ റീസെറ്റ് ചെയ്യുമ്പോഴോ ആണ് അൺമസ്കബിൾ ഇന്റെര്പ്റ് വരുന്നത് അപ്പോൾ ഇന്റെര്പ്റ് നഷ്ടപ്പെടും ഇത് മറികടക്കാനായി ഫിഫോ ഉപയോഗിക്കാംഅപ്പോൾ പവർ റീസെറ്റ് സമയത്തെ അൺമസ്കബിൾ ഇന്റെര്പ്റ് താത്കാലികമായി സ്റ്റോർ ചെയ്യപ്പെടും വേറൊരു പ്രശ് നം കൌണ്ടെർസിന്റെ പെർഫോമൻസ് ആണ് ചീറ്റ് കോഡ് ആണ് ട്രോജനെ ട്രിഗർ ചെയ്യാനുള്ള മറ്റൊരു വഴി ഇവിടെ ഒരു പ്രത്യാക ഇൻപുട്ട് ഉദാഹരണത്തിന് 0x0XCAFEBEEF കൊടുത്താൽ ട്രിഗർ സര്ക്യൂട് ആക്ടിവേറ്റഡ് ആകുകയും പേലോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും ഇത് നമ്മൾ മുൻപത്തെ വിഡിയോയിൽ കണ്ടിട്ടുണ്ട് അതായതു ഒരു പ്രത്യാക അഡ്രസ് കൊടുത്താൽട്രിഗർ വാല്യൂ 1 ആകുകയും പിന്നെ മൾട്ടിപ്ളെക്സർ സ്വിച്ച് ചെയ്ത് സെൻസിറ്റീവ് ഡാറ്റ ഔട്പുട്ടിലേക്കു ലീക്ക് ആക്കുകയും ചെയ്യുന്നത് സാദാരണ ഒരു ചീറ്റ് കോഡ് തലത്തിലുള്ള ഹാർഡ്വെയർ ട്രോജൻ ഏതാണ്ടിതു പോലിരിക്കും ഇതിനൊരു ഇൻപുട്ട് ഉണ്ട് അറ്റാക്കർ സ്പെസിഫിക് ചീറ്റ് കോഡ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓരോ ഇൻപുട്ട് വരുമ്പോളും ചീറ്റ് കോഡ്മായി താരതമ്യം ചെയ്യും എന്നിട്ട് ഔട്ട്പുട്ട് 0 ഓ 1 ഓ തരും ചീറ്റ് കോഡിനോട് തുല്യമല്ലാത്ത ഇന്പുട്സ് വരുമ്പോൾ മുൾട്ടിപ്ളെക്സർ ഒറിജിനൽ ലോജിക് തിരഞ്ഞെടുക്കും ഔട്പുട്ട് ആയി എന്നിട്ട് സാധാരണ പോലെ പ്രവർത്തിക്കും ചീറ്റ് കോഡിനോട് തുല്യമായ ഇന്പുട്സ് വരുമ്പോൾ മുൾട്ടിപ്ളെക്സർ മലീഷ്യസ് ലോജികിലേക്ക് സ്വിച്ച് ചെയ്യും എന്നിട്ടു രഹസ്യ വിവരങ്ങൾ ലീക്ക് ചെയ്യും അതുകൊണ്ടു എങ്ങിനെ നമുക്ക് ചീറ്റ് കോഡ് ഉപയോഗിച്ചു ആക്ടിവേറ്റ് ആകുന്ന ഹാർഡ്വെയർ ട്രോജനെ എങ്ങിനെ തടയാം എന്നു നോക്കാം ഒരു വഴി എന്നത് അറ്റാക്കർസെറ്റ് ചെയ്തതായ ചീറ്റ് കോഡ് അയാൾക്ക് ഒരിക്കലും ലഭിക്കരുത് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു എൻക്രിപ്റ്റർ മൊഡ്യൂൾ ഉണ്ട് എല്ലാ ഇൻപുട്ടിനേയും ഇത് എൻക്രിപ്ട് ചെയ്ത്തിനു ശേഷമാണ് ഹാർഡ്വെയർ മൊഡ്യൂൾ വർക്കു ചെയ്യുന്നത് പിന്നെ ഉള്ള ഡീക്രിപ്റ്റർ മൊഡ്യൂൾ അപ്പപ്പോളത്തെ ശരിയായ ഔട്ട്പുട്ട് നൽകുന്നു എൻക്രിപ്റ്റർ ഉണ്ടെങ്കിൽ ഔട്പുട്ടിൽ ഡീക്രിപ്റ്ററും ഉണ്ടാകണം റിസൾട്ട് എപ്പോളും ശരിയായിരിക്കാൻ രാണ്ടാമതായി ഇന്പുട്കൾ അസ്പഷ്ടമാക്കൽ മൂലവും ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ചീറ്റ് കോഡിനെ തടയും ഉദാഹരണത്തിന് ചീറ്റ് കോഡ്at code 0xCAFEBEEF ആണെന്ന് കരുതുക അത് ഇവിടെ സ്റ്റോർstore ചെയ്തിട്ടുണ്ട് അറ്റാക്കർ 0xCAFEBEEF നു തുല്യമായ ഒരു ഇൻപുട്ട് നല്കുമ്പോൽ കമ്പാരട്ടർ ഔട്ട്പുട്ട് 1 ആവുകയും മലീഷ്യസ് ലോജിക് ആക്ടിവേറ്റഡ് ആയി ഔട്ട്പുട്ട്ഇൽ മാറ്റം വരുത്തും ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് അസ്പഷ്ടമാക്കുവാനായി ഒരു എൻക്രിപ്റ്റർ കൊണ്ടുവരുന്നു 0xCAFEBEEF ഇൻപുട്ട് ആയി നൽകുമ്പോൾ വളരെ വെത്യസ്ഥമായ മറ്റൊരു വാല്യൂയിലേക്ക് മാറ്റപെടുന്നതുമൂലം സ്റ്റോർ ചെയ്തുവച്ചിരിക്കുന്ന ചീറ്റ് കോഡ് മായുള്ള സാമ്യം നഷ്ടപെടുന്നതുമൂലം അറ്റാക്കർക്കു അയാളുടെ ആഗ്രഹ ത്തിന് അനുസരിച്ചു മൾട്ടിപ്സ്റെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു 2009 ൽ ക്രെയ്ഗ് ജന്ററി പ്രൊപ്പോസ് ചെയ്ത ഹോമോമോർഫിക് എൻക്രിപ്ഷൻ ആണ് ഡാറ്റയിൽ അസ്പഷ്ടത വരുത്തുവാൻ ഉള്ള വഴി എൻക്രിപ്റ്റഡ് ഡാറ്റ ഇൻപുട്ടിൻമേൽ മെമ്മറി കൺട്രോളർ വർക്ക് ചെയ്യുകയാണിവിടെ ചെയ്യുന്നത് ഉദാഹരണത്തിന് 57 എന്നിവ എൻക്രിപ്ഷൻ ചെയ്തതിനുശേഷം മെമ്മറികൺട്രോളർ ഫങ്ക്ഷൻ ചെയ്തതിനു ശേഷം റിസൾട്ട്തരുന്നു ഇതിനെ ഡീക്രിപ്റ്റർ ഡീക്രിപ്ട് ചെയ്തു കറക്റ്റ് ഇൻപുട്ട് വാല്യൂ കണ്ടെത്തുന്നു എന്നിരുന്നാലും ഹോമോമോർഫിക് എൻക്രിപ്ഷൻ ഈ വിധ ഉപയോഗത്തിന് പറ്റിയതല്ലാത്തതിനാൽ വേറെ വഴികൾ തേടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പേപ്പറിൽ പറയുന്നത് പല വിധത്തിലുള്ള ഓപ്പറേഷനുകളെ നോൺ കമ്പ്യൂട്ടേഷ നൽ എന്നും കമ്പ്യൂട്ടേഷനൽ എന്നു മായി തിരിക്കാം അപ്പോൾ റൂട്ടേഴ്സ് മെമ്മറി കാക്ഷെ മെമ്മറി ബഫേർസ് രെജിസ്റ്റെർസ് മുതലായവ ഹാർഡ്വെയർ കോംപോണേന്റ്സ് നോൺകമ്പ്യൂട്ടേഷനൽ ഹാർഡ്വെയർ എന്റിറ്റീസിൽ പെടും എന്താണെന്ന് വച്ചാൽ ഇവ ഒന്നും ഡാറ്റയെ മോഡിഫൈ ചെയ്യില്ലഅവ സ്റ്റോർ ചെയ്യുകയോസ്പെസിഫിക് ലൊക്കേഷനുകളിലേക്ക് റൂട്ട് ചെയ്യുകയോ ലുക്ക് അപ്പ് പ്രൊവൈഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യുക ഇവിടെ ഡാറ്റ അസ്പഷ്ടത വരുത്തുവാൻ എളുപ്പമാണ് രഹസ്യ ഡാറ്റയുടെ കൂടെ ഇൻപുട്ട് ഡാറ്റ എ ക്സ് ഓർ ചെയ്താൽ മതി ഈ എക്സ് ഓർ ഇന്പുട്ട്കളെ വളരെ വെത്യസ്തമാക്കി മറ്റും ഔട്പുട്ട് ലഭിക്കാനായി ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നവയെ എല്ലാം തിരിച്ചു എക്സ് ഓർ ചെയ്താണ് ഔട്പുട്ട് എടുക്കുന്നത് നമുക്ക് ഈ മെമ്മറി കൺട്രോളർ ഉണ്ടിവിടെ നമ്മുടെ ഇൻപുട്ട് 5 ആണെന്ന് കരുതുക അതിനെ രഹസ്യ കീയുടെ കൂടെ എക്സ് ഓർ ചെയ്യുമ്പോൾ 8 ലഭിക്കും ഇതുപോലെ വീണ്ടും നമ്മൾ 8 രഹസ്യ കീയുടെ കൂടെ എക്സ് ഓർ ചെയ്യുമ്പോൾ 5 തിരികെ ലഭിക്കും ഇതുപോലെ ത്തന്നെ 7 എൻക്രിപ്ട് ചെയ്താൽ 4 ലഭിക്കുകയുംഅപ്പുറത്തു അത് ഡീക്രിപ്ട് ചെയ്യുമ്പോൾ 7 തിരികെ ലഭിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് ട്രിഗറിനെ തടയാം ഇപ്പോൾ ഈ മെമ്മറി കൺട്രോളറിൽ ചീറ്റ് കോഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ ട്രോജൻ ആണെന്നും ചീറ്റ് കോഡ് 5 ആണെന്നും കരുതുക ഇപ്പോൾ അറ്റാക്കർ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യാനായി 5 അയക്കുംപക്ഷേ ഒന്നും സംഭവിക്കില്ല എന്തു കൊണ്ടെന്നാൽ ഈ ഇൻപുട്ട് 5 എൻക്രിപ്ട് ചെയ്യുമ്പോൾ 8 ആയി മാറും പക്ഷേ കമ്പ്യൂട്ടേഷനൽ കേസിൽ ഡാറ്റ അസ്പഷ്ടത വരുത്തുവാൻ എളുപ്പമല്ല അതായത് എഎൽയു കൾ എഫ്പിയു കൾ ഡികോഡറുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കസ്റ്റo ലോജിക്കുകൾ ഉണ്ടെങ്കിൽ അവയെ ഒബഫുസ്കെറ്റ് ചെയ്യാൻ എളുപ്പമല്ല ഇവയിൽ ഓരോന്നിനും അവക്കനുസൃതമായി ചെയ്യേണ്ടിവരും ഉദാഹരണ ത്തിന് ഒരു എഎൽയു ആണെങ്കിൽ നമ്മൾ അതിനകത്തെ മൾട്ടിപ്ലെയറിന്റെ ഇൻപുട്ടുകളെ ഒബഫുസ്കെറ്റ് ചെയ്യുകയും ഒറിജിനൽ ഔട്പുട്ട് ലഭിക്കാനായി അവസാനം ഒബഫുസ്കെഷൻ നീക്കം ചെയ്യുകയും വേണ്ടിവരും ഇത് അത്രേ എളുപ്പമല്ല ട്രിഗർ ഉണ്ടാക്കാനുള്ള മറ്റുവഴി എന്നത് സീക്വൻസ് ആയുള്ള ചീറ്റ് കോഡ് ഉപയോഗിച്ചാണ് ഉദാഹരണത്തിന് 0xCAFEBEEF ഇങ്ങനെ ഒരു സീക്വൻസ് അണെങ്കിൽ അത് അങ്ങിനെതന്നെ വന്നാൽ മാത്രമേ ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റഡ് ആകുകയുള്ളു ഇത് നമ്മൾ ഹാർഡ്വെയർ ട്രോജനെ കുറിച്ചുള്ള ആദ്യത്തെ വിഡിയോയിൽ കണ്ടിട്ടുണ്ടാ യിരുന്നു എങ്ങനെയാണു ഹാർഡ്വെയർ ട്രോജൻ സ്പെസിഫിക് ആയ ഇൻപുട്ടുകൾ വരുമ്പോൾ സ്റ്റെറ്റ് മെഷീൻ മെയിന്റൈൻ ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആത്യന്തികമായി ട്രിഗർ 0 യിൽ നിന്ന് 1 ആകുമ്പോൾ പേലോഡ് ആക്ടിവേറ്റഡ് ആകുകയും വിവരങ്ങൾ നഷ്ടപെടുകയുo ചെയ്യും സീക്വൻസ് ആയുള്ള ചീറ്റ് കോഡ് തകർക്കാനുള്ള ഒരു വഴി റീഓർഡർ ചെയ്യുക എന്നതാണ്ഇന്പുട്ട്കളെല്ലാം സ്വതന്ത്രമാണെന്നും ഏതു ഇൻപുട്ടിനും എപ്പോൾ വേണമെങ്കിൽ വരാൻ കഴിയുമെന്നും അനുമാനിക്കാം ഉദാഹരണത്തിന് എബിസി എന്നീ ഇൻപുട്ടുകളെ ബ്രേക്ക് ചെയ്തു എ സി ബി എന്ന് റീഓർഡർ ചെയ്ത് നൽകാം എന്നിട്ടു കംപ്യൂട്ടേഷൻ കഴിഞ്ഞതിനുശേഷം ഔട്ട്പുട്ട് തിരിച്ചു റീഓർഡർ ചെയ്യണം ഇത് എങ്ങിനെ പ്രവർത്തിക്കും എന്ന് നോക്കാം അറ്റാക്കർ ചീറ്റ് കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് എബി സി എന്ന സീക്വൻസി ലായതുകൊണ്ട്ഹാർഡ്വെയർ ട്രോജൻ ട്രിഗർ ചെയ്യാനായി ചീറ്റ് കോഡ് സീക്വൻസ് ആയി എബിസി അയക്കും ഇന്റെർണലി സ്റ്റെറ്റ് മെഷീൻ എബി സി എന്ന ഇൻപുട്ട് സീക്വൻസിനനുസരിച്ചു നീങ്ങി അവസാനം ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യും ഇപ്പോൾ നമ്മൾ എബിസി എന്നീ ഇൻപുട്ടുകളെ ബ്രേക്ക് ചെയ്തു എസി ബിഎന്ന് റീഓർഡർ ചെയ്തതിനാൽ സ്റ്റെറ്റ് മെഷീൻഒരിക്കലും അവസാന സ്റ്റേറ്റിൽ എത്തുകയില്ല ആയതിനാൽ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യത്തനിനാൽ പേലോഡ് പ്രവർത്തിക്കില്ല സീക്വൻസ് ചീറ്റ് കോഡ് തകർക്കാനുള്ള മറ്റോരു വഴി ഇടയ്ക്കിടയ്ക്ക് റാൻഡം ഇന്പുട്ട്സ് ഇൻസേർട്ട് ചെയ്യുക എന്നതാണ് ഉദാഹര ണത്തിന് ഇവിടെ അറ്റാക്കർ എവരാനും പിന്നെ ബിയും അവസാനം സി യും വരാനായി കാത്തിരിക്കുമ്പോൾ ഒരു റാൻഡം ഇന്പുട്ട് ഡി വന്നാൽ അത് സീക്വൻസ് ബ്രേക്ക് ആകുകയും ഹാർഡ്വെയർ ട്രോജൻ ആക്ടിവേറ്റ് ആകുന്നത് തടസ്സപ്പെടും അതുകൊണ്ട് സർക്യൂട്ടോ സിസ്റ്റമോ ഡിസൈൻ ചെയ്യുമ്പോൾഹാർഡ്വെയർ ട്രോജെനേയും ട്രോജൻ ട്രിഗേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന രീതികളെ ക്കുറിച്ചൊക്കെ മനസിലുണ്ടാകുന്നത് നമ്മുടെ ഹാർഡ്വെയർ മോഡ്യൂളിൽ ട്രോജൻ ആക്ടിവേറ്റ് ആകുന്ന കേസുകൾ കുറയ്ക്കും എന്നിരുന്നാലും നമ്മൾ കണ്ടിട്ടുള്ളതു പോലെ പല കേസുകളിലും പല സർക്യൂട്ടുകളിലും ഇതുപോലുള്ള ഡിസൈൻസ് കൊണ്ടുവരിക എന്നത് ദുഷ്കരമാണ് ഇങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻ എന്നതിതാണ് ഇവിടെ നമുക്ക് രണ്ടു തികച്ചും സ്വതന്ത്രമായ യൂണിറ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് രണ്ടു ഇന്പുട്ട്സ് രണ്ട് യൂണിറ്റിലേക്കും അയച്ചു ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യണം വളരേ സങ്കീർണമായ സർക്യൂട്ട് ആണിവിടെ ഈ കാണുന്നത് ഈ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരി തത്തിൽ ട്രോജൻ ഇല്ലാ എന്നുറപ്പിക്കണം നമ്മൾ ഇവിടെ എ യിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായ രീതിയിൽ എ A എന്ന വേറൊരു യൂണിറ്സ് ഡിസൈൻ ചെയ്തു ഇത് തികച്ചും വ്യത്യസ്താമായ ഒരു മേഖലയിൽ ഉണ്ടാക്കിയിട്ട് രണ്ടിനും ഒരേ ഇൻപുട്ട് തന്നെ കൊടുത്തു ട്രോജൻ ഒന്നും ഇല്ലെങ്കിൽ രണ്ടും ഒരേ പ്രവർത്തനം നടത്തി ഒരേ ഔട്പുട്ട് തന്നെ തരും ഉദാഹരണത്തിനിപ്പോൾ ഒരു പ്രത്യാക ഇൻപുട്ട് ഒരു പ്രത്യാക സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രവർത്തിയെ ട്രിഗർ ചെയ്യുന്ന ഒരു ചീറ്റ് കോഡോ ഇതിൽ ഏതെങ്കിലും ഒന്നിന് നല്കിയിരുന്നുവെങ്കിൽ യൂണിറ്റ് എ യുടെയും എ Aൻറെയും റിസൾട്ട് വ്യത്യസ്തമായേനെ അപ്പോൾ ഈ ചെക്കർ ഈ വെത്യാസം കണ്ടെത്തി എക്സിക്യൂഷൻ നിർത്തുമായിരുന്നു